അവസാന ക്ലാസ്സിൽ നമ്മൾ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ പരിശോധിച്ചു മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ ഉപയോഗം പ്രദർശിപ്പിച്ച ഒരു ഉദാഹരണ പ്രോബ്ലെവും നമ്മൾ കണ്ടു നമ്മൾ കണ്ട സമവാക്യങ്ങൾ എന്തൊക്കെയാണ് പോളാർ കോർഡിനേറ്റുകളിലെ സിക്സ് ടെം സൊല്യൂഷൻ വില്യംസിന്റെ സമവാക്യം നമ്മൾ കണ്ടു പോളാർ കോർഡിനേറ്റുകളിൽ നിങ്ങൾക്ക് ആറ് ടേം പരിഹാരമുണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഘടകങ്ങൾ സിഗ്മ ആർ സിഗ്മ തീറ്റ ടോ ആർ തീറ്റ എന്നിവ ലഭിക്കും ഇത് മോഡ്I ലോഡിനോട് യോജിക്കുന്നു മോഡ് II ലോഡിംഗിനോട് യോജിക്കുന്ന മറ്റൊരു കൂട്ടം ടെംസ് നിങ്ങൾക്കുണ്ട് ഈ സമവാക്യം തികച്ചും സങ്കീർണമാണ് മാത്രമല്ല ഇത് ഒരു സാധാരണ രൂപത്തിൽ എഴുതാൻ നമുക്ക് കഴിയില്ല മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യം ഡാറ്റ പ്രോസസ്സിംഗിനായി മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ഗംഭീരമായ രീതിയിൽ കൊണ്ടു വന്നതിന്റെ ക്രെഡിറ്റ് അറ്റ്ലൂരി കോബയാഷി എന്നിവർക്കാണ് ഇവിടെ n എന്ന വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രകടിപ്പിച്ച പദങ്ങളുണ്ട് n 1 മുതൽ ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടുന്നു നിങ്ങൾക്ക് മോഡ് I ന് സമാനമായ പദങ്ങളും മോഡ് II ന് സമാനമായ പദങ്ങളും ഉണ്ട് അത്തരമൊരു എക്സ്പ്രഷന്റെ പ്രയോജനം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഴുതുന്നത് എളുപ്പമാണ് അത് കഴിയുന്നത്ര പദങ്ങൾ എടുക്കും ഈ പരിഹാരങ്ങളിൽ നിങ്ങൾ കഴിയുന്നത്ര പദങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സ്ട്രെസ് ഫീൽഡിനെ നന്നായി പ്രതിനിധീകരിക്കുന്നു ആ വാദം സാധുവാണ് ടഡ പാരീസ് ഇർവിൻ എന്നിവരുടെ വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളുടെ പരിഷ്ക്കരണം നമ്മൾ പരിശോധിച്ചു അവർക്ക് ഒരു സീരീസ് സൊല്യൂഷനും ലഭിച്ചു പക്ഷേ ആ സീരീസ് സൊല്യൂഷന് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ Z അത് അപര്യാപ്തമായിരുന്നു സാൻഫോർഡ് ഇത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം Y ചേർത്തു അപ്പോൾ നിങ്ങൾക്ക് ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ ലഭിച്ചു പരിഗണനയിലുള്ള തന്നിരിക്കുന്ന പ്രോബ്ലെത്തിന് ആ സമവാക്യങ്ങൾ സാധുവാണ് നിങ്ങൾക്ക് കൂടുതൽ ടെംസ് എടുക്കാം കൂടുതൽ ടെംസ് എടുക്കുമ്പോൾ എക്സ്പെരിമെന്റൽ വിശകലനത്തെ അപേക്ഷിച്ചു ഡാറ്റ പ്രോസസ്സിംഗ് കൂടുതൽ പ്രസക്തമായിരിക്കും മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ഒരു ആവശ്യകതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെന്ന് ഇതെല്ലാം കാണിക്കുന്നു ഈ സമീപനങ്ങളുടെ ഉത്ഭവം വ്യത്യസ്തമാണെങ്കിലും അവ ഒരു യൂണിക് സൊല്യൂഷനിലേക്ക് ഒത്തുചേരുന്നു അതും നാം കാണും മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ തുല്യത അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇലാസ്തികതയുടെ പ്രത്യേകത സിദ്ധാന്തത്തിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകൂ ഇത് നിങ്ങൾ കണക്കാക്കെണ്ടതുണ്ട് ഇത് വളരെ പ്രധാനമാണ് വില്യംസിന്റെ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചതെല്ലാം പോളാർ കോർഡിനേറ്റുകളിലായിരുന്നു ആ സ്ട്രെസ് ഘടകങ്ങൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളായി രൂപാന്തരപ്പെടുത്തി അറ്റ്ലൂരി കോബയാഷിയുമായി താരതമ്യം ചെയ്താൽ നിങ്ങൾ റഫറൻസ് എ I ഐ എ II ഐ എന്നിവയായി എടുക്കുന്നു A Ii എന്നത് വില്യംസിന്റെ സൊല്യൂഷൻ ന്റെ C 1i അല്ലാതെ മറ്റൊന്നുമല്ല A IIi മൈനസ് സി 2i ആണ് അതിനാൽ വില്യംസും അറ്റ്ലൂരി കോബയാഷിയും നൽകിയ സൊല്യൂഷൻ വ്യത്യസ്തമല്ല അവ ഒന്നുതന്നെയാണ് ഒരു തുല്യതയുണ്ട് ഇത് ആദ്യമായി എന്റെ വിദ്യാർത്ഥികൾ ആണ് കൊണ്ടുവന്നത് ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഫ്രാക്ചറിൽ ഇത് പ്രസിദ്ധീകരിച്ചു ഫ്രാക്ചർ മെക്കാനിക്സിലെ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ തുല്യത എന്നായിരുന്നു പ്രബന്ധത്തിന്റെ വിഷയം നിങ്ങൾക്കറിയാമോ ഇതാണ് യുക്തിസഹമായ മുന്നേറ്റം കാരണം ഒരേ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒന്നിലധികം പരിഹാരങ്ങൾ ഉള്ളപ്പോൾ അവ സമാനമായിരിക്കണം അവ സമാനമല്ലെങ്കിൽ നിങ്ങൾ തിരികെ പോയി നിങ്ങളുടെ ഗണിതശാസ്ത്രം പരിശോധിച്ച് സൊല്യൂഷന്റെ വികാസത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ക്രാക്ക് പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ദിശയിലേക്ക് നമ്മൾ നീങ്ങുന്നുവെന്ന ആത്മവിശ്വാസം ഇത് വീണ്ടും നൽകുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടു അറ്റ്ലൂരി കോബയാഷി വില്യംസ് സൊല്യൂഷനുള്ള ബന്ധം എന്താണ് എന്ന് വെസ്റ്റർഗാർഡ് സൊല്യൂഷനും സമാനമായ ഒരു വ്യായാമം നിങ്ങൾക്ക് ചെയ്യാം ക്ലാസ്സിൽ ഞാൻ മോഡ് I സാഹചര്യത്തിനായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കോഎഫിഷ്യന്റ്സ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ഇതാണ്കോഎഫിഷ്യന്റ് AI ഓഫ് ഐ പ്ലസ് 1 ഈക്വൽ റ്റു സി i ഡിവൈഡഡ് ബൈ ഐ പ്ലസ് 1 മോഡ് II ലോഡിംഗിന് ഞാൻ നിങ്ങൾക്ക് ഐറിയുടെ സ്ട്രെസ് ഫംഗ്ഷൻ നൽകി നിങ്ങൾ അത് ഒരു ഹോംവർക് ചെയ്യുക അതിനാൽ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വ്യത്യസ്തമല്ലെന്ന് ഇത് കാണിക്കുന്നു നിങ്ങൾക്ക് ഒരു രീതിയിൽ സങ്കീർണ്ണമായ വേരിയബിൾ സമീപനവും മറ്റൊന്ന് നിങ്ങൾക്ക് ഐഗേൻ ഫംഗ്ഷൻ സമീപനവുമുണ്ടായിരുന്നു അവ സമാന പരിഹാരങ്ങളിലേക്ക് ഒത്തുചേരുന്നു Isochromatics in Mode I ഇപ്പോൾ നമ്മൾ ഇതിന്റെ പ്രയോജനം കാണും അവസാന ക്ലാസ്സിൽ നമ്മൾ ഇത് എടുത്തു ഒരു മോഡ് I അവസ്ഥയുടെ പ്രോബ്ലെം സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്ന എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ളത് മുന്നോട്ട് ചെരിഞ്ഞ ലൂപ്പുകളും ഒരു ഫ്രണ്ടൽ ലൂപ്പും ഉണ്ട് ഇടതുവശത്ത് നിങ്ങൾക്ക് സൈദ്ധാന്തികമായി കിട്ടിയ ഫ്രിഞ്ച് പാറ്റേണുകൾ ഉണ്ട് നിങ്ങൾ ഒരു വൃത്തിയുള്ള രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി നിങ്ങളുടെ കൂടുതൽ സമയം എടുത്ത് സ്കെച്ച് ഉണ്ടാക്കുക നിങ്ങൾ രണ്ട് പാരാമീറ്റർ സൊല്യൂഷൻ എടുക്കുമ്പോഴെല്ലാം രണ്ട് പാരാമീറ്റർ സൊല്യൂഷന് ലൂപ്പുകളുടെ ഫോർവേഡ് ടിൽറ്റിംഗ് മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ കഴിയൂ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ കാണുന്ന ഫ്രന്റൽ ലൂപ്പുകൾ ഇതിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ 2 പാരാമീറ്റർ സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ K I ന്റെ മൂല്യം 0 445 എംപിഎ റൂട്ട് മീറ്ററാണ് അതേസമയം ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ K I കൂടുതലാണ് അതായത് 0 656 MPa റൂട്ട് മീറ്റർ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ചുവന്ന ഡോട്ടുകളാണ് അവ എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേണിൽ നിന്നും എടുത്ത ഡാറ്റാ പോയിൻറുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ രണ്ട് പാരാമീറ്ററുകൾക്കായി സ്കെച്ച് വരയ്ക്കുകയും 6 പാരാമീറ്റർ സൊല്യൂഷനായി സ്കെച്ച് വരയ്ക്കുകയും ചെയ്യുക ഇന്റർമീഡിയറ്റ് പോയ്ന്റ്സ് നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് ഈ പേപ്പർ റഫർ ചെയ്യാൻ കഴിയും ഞാൻ അതിനെ വലുതാക്കും ഈ പേപ്പറിൽ എല്ലാ വിശദാംശങ്ങളും ഉണ്ട് ഫ്രാക്ചർ മെക്കാനിക്സിലെ സ്ട്രെസ് ഫീൽഡ് പാരാമീറ്ററുകൾ ഫോട്ടോഇലാസ്റ്റിറ്റി ഉപയോഗിച്ച് വിലയിരുത്തുന്നതിലൂടെയാണ് ഇത് വീണ്ടും സന്ദർശിച്ചത് കാരണം അറ്റ്ലൂരി കോബയാഷി എന്നിവയുടെ സമവാക്യങ്ങൾ ഉപയോഗിക്കുകയും വിവിധ പ്രശ്നങ്ങൾക്ക് അതിന്റെ യൂട്ടിലിറ്റി പ്രദർശിപ്പിക്കുകയും ചെയ്ത ആദ്യത്തെ പേപ്പറാണിത് എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഇത് പ്രസിദ്ധീകരിച്ചു പാരാമീറ്ററുകളുടെ എണ്ണത്തിന്റെ ഒരു ഫംഗ്ഷനായി നിങ്ങൾക്ക് സൊല്യൂഷൻ നൽകിയിട്ടുണ്ട് ഈ ഫ്രിഞ്ച് പാറ്റേൺ ഇവയെല്ലാം ലഭ്യമാണ് എന്നിരുന്നാലും വിവിധ ലോഡിംഗ് സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സാഹചര്യത്തിൽ ക്രാക്ക് ടിപ്പിന് മുന്നിലുള്ള ചുവന്ന ഡോട്ടുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും ഇത് 3 പാരാമീറ്ററിനുള്ളതാണ് 3 പാരാമീറ്റർ സൊല്യൂഷന് പോലും ഫ്രണ്ടൽ ലൂപ്പുകൾ പിടിച്ചെടുക്കാൻ കഴിയില്ല 4 പാരാമീറ്ററുകൾ മുതൽ ഇത് ഫ്രന്റൽ ലൂപ്പ് പിടിച്ചെടുക്കുന്നു അഞ്ചാമത്തെ പാരാമീറ്ററും ആറാമത്തെ പാരാമീറ്ററും എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേണിന്റെ എല്ലാ സവിശേഷതകളും വളരെ നന്നായി പിടിച്ചെടുക്കുന്നു ഫലവും വളരെ അടുത്താണ് KI 0 653 ഉം അവസാന സൊല്യൂഷൻ 0 656 ഉം ആണ് നിങ്ങളുടെ സിഗ്മ നോട്ട് x 2 അവസാന മൂല്യം 2 919 ആണ് എട്ട് ടേം സൊല്യൂഷനു ഇത് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ശ്രേണിയിലെ കൂടുതൽ പദങ്ങൾ എടുക്കുന്നതിലൂടെയാണ് എക്സ്പെരിമെന്റൽ സവിശേഷതകൾ പകർത്താൻ നിങ്ങൾക്ക് കഴിയും അത് നമ്മൾ നേടിയ സ്ട്രെസ് ഫീൽഡ് സൊല്യൂഷൻ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സ്ട്രെസ് ഫീൽഡിനെ നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നുവെന്ന സ്ഥിരീകരണവും നൽകുന്നു ജ്യാമിതീയ രൂപത്തിൽ നിന്ന് ഫോട്ടോഇലാസ്റ്റിറ്റി ഒരു സൂചന നൽകുന്നുവെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് ക്രാക്ക് ടിപ്പിന് മുന്നിൽ ഫ്രിൻജെസ് ക്രോസ്സ് ചെയ്യുന്നു ആളുകൾ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ അവർ ചോദ്യം ഉന്നയിക്കുമായിരുന്നില്ല നിങ്ങൾ ചരിത്രവും നോക്കണം വെസ്റ്റർഗാർഡ് സൊല്യൂഷനിൽ നിന്നും ആണ് ഗവേഷണം ആരംഭിച്ചത് ഇർവിൻ ഒരു സ്ഥിരമായ പദം ചേർത്തു അവർ വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ മാത്രം നോക്കുകയായിരുന്നു വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ പരിഷ്ക്കരിച്ചിട്ടില്ലെങ്കിൽ അവർ അന്തിമ സൊല്യൂഷനിൽ എത്തുമായിരുന്നില്ല അതേസമയം വില്യംസിന്റെ സൊല്യൂഷൻ പൂർണമാണ് അദ്ദേഹത്തിന്റെ ചർച്ചകളുടെ ഒരു സംഗ്രഹത്തിലും ഞാൻ പരാമർശിച്ചു നിർഭാഗ്യവശാൽ സ്ട്രൈറ്റ് എഡ്ജിൽ സ്ട്രെസ് ഇല്ലാത്തപ്പോൾ രണ്ടാമത്തെ ടേം 0 ആയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് യൂണി ആക്സിയൽ സ്ട്രെസ് ഫീൽഡ് പോലെയാണ് അതൊരു നിർഭാഗ്യകരമായ ഒരു നിഗമനമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആളുകൾ 1957 മുതൽ വില്യംസിനെ ഉപയോഗിക്കുകയും ക്രാക്ക് ടിപ്പിന് സമീപമുള്ള സ്ട്രെസ് ഫീൽഡിന്റെ മാതൃക ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു അതിനാൽ നമ്മൾ ചരിത്രം നോക്കിയാൽ ഒരു പരിഷ്ക്കരണം അത്യാവശ്യമായിരുന്നു സാൻഫോർഡ് ഇത് അവതരിപ്പിച്ചു ഹോളോഗ്രാഫിയുടെ കാര്യത്തിൽ ഫ്രിഞ്ചസ് എങ്ങനെ ദൃശ്യമാകുമെന്നതും നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഫ്രിഞ്ചസ് നിരീക്ഷിക്കുന്നു ഈ സ്ക്രീനിൽ എക്സ്പെരിമെന്റൽ ഐസോക്രോമാറ്റിക്സ് ഉണ്ട് ഫോട്ടോഇലാസ്റ്റിറ്റി പറയുന്ന പോലെ അനുയോജ്യമായ സിഗ്മ 1 മൈനസ് സിഗ്മ 2 നായി സൈദ്ധാന്തികമായി നിങ്ങൾ പുനർനിർമ്മിച്ച ഫ്രിഞ്ച് പാറ്റേണുകൾ ഇവിടെയുണ്ട് സമാന സൊല്യൂഷനിലൂടെ ഇവിടെ സൈദ്ധാന്തികമായി സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലോട്ട് ചെയ്തിരിക്കുന്നതിനാൽ താരതമ്യം ചെയ്യാനാകും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പദങ്ങളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ സാന്ദ്രതയുടെ മാറ്റം കാണുന്നു ഫ്രിഞ്ച് പാറ്റേണിന്റെ ജ്യാമിതിയിൽ ശ്രദ്ധേയമായ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല ഫ്രിഞ്ച് പാറ്റേണിന്റെ ജ്യാമിതിഏകദേശം അതുപോലെ തുടരുന്നു ലോഡിന് അനുസരിച്ച് സാന്ദ്രത മാറ്റങ്ങൾ മാത്രം കൂടുതലോ കുറവോ ആണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതി അതാണ് സൈദ്ധാന്തിക സൊല്യൂഷൻ സമഗ്രമല്ല എന്ന് ചിന്തിക്കാൻ ഇത് ഒരു ഗവേഷകനെ പ്രേരിപ്പിക്കുകയില്ല Isochromatics in mixed mode Mode I Mode II മിക്സഡ് മോഡിൽ ഐസോക്രോമാറ്റിക്സ് മോഡ് I മോഡ് II ഇപ്പോൾ നമ്മൾ ഒരു മിക്സഡ് മോഡ് സാഹചര്യത്തിന്റെ കാര്യം ഏറ്റെടുക്കും നിങ്ങൾക്കറിയാമോ ഇത് വളരെ സങ്കീർണ്ണമായ ഒരു പ്രോബ്ലെമാണ് വാസ്തവത്തിൽ കാൺപൂരിലെ ഐഐടിയിലാണ് ഇത് ചെയ്തത് ഈ റിഗ് ഉണ്ടാക്കിയ വിദ്യാർത്ഥി ശ്രീ പാംഖാവാല ആയിരുന്നു ഗിയർ ഒരു ഷാഫ്റ്റിൽ എങ്ങനെ ഘടിപ്പിക്കാം എന്ന് കാണിക്കുന്ന വളരെ സങ്കീർണ്ണമായ വ്യായാമം ഇവിടെ നിങ്ങൾക്ക് അലുമിനിയം കൊണ്ട് നിർമ്മിച്ച ഒരു ഗിയർ ഉണ്ട് അതിനാലാണ് നിങ്ങൾ ഇതിൽ ഫ്രിഞ്ചസ് കാണാത്തത് ഇതാണ് എപ്പോക്സി ഉപയോഗിച്ച് നിർമ്മിച്ച ഗിയർ നിങ്ങൾക്ക് ടെൻസൈൽ റൂട്ട് ഫില്ലറ്റിൽ ഒരു ക്രാക്ക് ഉണ്ട് നിങ്ങൾക്കറിയാമോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു ഫൈനൈറ്റ് ബോഡി പ്രോബ്ലെമാണെന്ന് തിരിച്ചറിയുക രണ്ടാമത്തേത് സ്ട്രെസ് കോൺസൺട്രേഷൻ സോണിലാണ് ക്രാക്ക് സ്ഥിതിചെയ്യുന്നത് മൂന്നാമത്തെ വശം കോൺടാക്റ്റ് സ്ട്രെസുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രെസ് കേന്ദ്രീകരണം എനിക്കുണ്ട് അതിനാൽ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഫീൽഡുമായി ഇതിന്റെ ഇടപെടൽ ഉണ്ടാകാം അത്തരമൊരു സങ്കീർണ്ണമായ സാഹചര്യത്തിന് പോലും 6 മോഡ് I പാരാമീറ്ററുകളും 6 മോഡ് II പാരാമീറ്ററുകളും ഉൾപ്പെടുന്ന സൊല്യൂഷൻ വളരെ നല്ല രീതിയിൽ ഫ്രിഞ്ച് ഫീൽഡ് പിടിച്ചെടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ഒരു വിജയമാണ് അത് ഒരു മികച്ച പ്രകടനമാണ് ക്രാക്കിന്റെ സമീപത്തുള്ള ഫീൽഡ് സ്ട്രെസ് അവസ്ഥ നമ്മൾ ന്യായമായും മനസ്സിലാക്കി അതാണ് നിങ്ങൾ നോക്കേണ്ടത് പാരാമീറ്ററുകളുടെ എണ്ണത്തിന്റെ ഒരു ഫംഗ്ഷനായി സൊല്യൂഷൻ എങ്ങനെ മാറുന്നു എന്ന് ഞാൻ കാണിക്കും ഒന്നോ രണ്ടോ സ്കെച്ചുകൾ നിങ്ങൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് അത്യാവശ്യമാണ് അതിനാൽ ഇത് മൊത്തത്തിലുള്ള ഗിയറും സൈദ്ധാന്തികമായി പുനർനിർമ്മിച്ചതും കാണിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് 2 പാരാമീറ്റർ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക 2 പാരാമീറ്റർ സൊല്യൂഷന് ടിൽറ്റ് മാത്രമേ നൽകാൻ കഴിയൂ ഫ്രിൻജുകളുടെ വലുപ്പം വ്യത്യസ്തമാണ് അതും പിടിച്ചെടുത്തു ക്രാക്ക് ആക്സിസുമായി ബന്ധപ്പെട്ട് ടിൽറ്റ് വ്യത്യസ്തമാണ് ഇതും നിങ്ങളുടെ 2 പാരാമീറ്റർ സൊല്യൂഷനും ക്യാപ്ചർ ചെയ്യുന്നു 2 പാരാമീറ്റർ സൊല്യൂഷന് മറ്റ് സവിശേഷതകൾ പകർത്താൻ കഴിയില്ല നിങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ നിങ്ങളുടെ പക്കലുണ്ട് നോൺ ലീനിയർ ലീസ്റ് സ്ക്വയറുകളുടെ അടിസ്ഥാനത്തിൽ കോഎഫിഷ്യന്റ്സ് കണ്ടെത്താൻ ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക പരീക്ഷണാത്മകമായി നിരീക്ഷിച്ച ഫ്രിഞ്ച് പാറ്റേണിന്റെ ഒരു രേഖാചിത്രവും നിങ്ങൾ തയ്യാറാക്കണം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രെസ് റെയ്സർ ഉള്ളതിനാലാണ് യഥാർത്ഥത്തിൽ ഈ സവിശേഷത അതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്രിഞ്ചുകൾ വികൃതമാക്കുന്നത് ഈ വളവു പോലും നിങ്ങളുടെ മൾട്ടി പാരാമീറ്റർ സൊല്യൂഷന് ക്യാപ്ചർ ചെയ്യാൻ കഴിയും സോഫ്റ്റ്വെയർ പോലും എഴുതാൻ വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് n ന്റെ ഫംഗ്ഷനായി പാരാമീറ്ററുകൾ നൽകിയിരിക്കുന്നു n മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് 2 ടെംസ് 3 ടെംസ് 4 ടെംസ് എടുക്കാനും അങ്ങിനെ പദങ്ങളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കാനും കഴിയും ഓരോ പാരാമീറ്റർ സൊല്യൂഷനും നിങ്ങൾക്ക് KI K II സിഗ്മ നോട്ട് x എന്നിവയുടെ മൂല്യങ്ങളും കാണാൻ കഴിയും 2 പാരാമീറ്റർ സൊല്യൂഷന്റെ മൂല്യങ്ങൾ ഇതുപോലെയാണ് കോൺവെർജ്ഡ് സൊല്യൂഷന് മൂല്യങ്ങൾ ഇതുപോലെയാണ് ഇത് പ്രാഥമികമായി മോഡ് I സാഹചര്യമാണ് അവസാന മോഡ് II ഘടകം ഏതാണ്ട് 0 ന് അടുത്താണ് കൂടാതെ സിഗ്മ നോട്ട് x ഉം മാറുന്നു ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എനിക്ക് നിരവധി ടെംസ് ഉള്ളതിനാൽ ഉചിതമായ വ്യവസ്ഥകളെ ആശ്രയിച്ച് ഈ കോഎഫിഷ്യന്റ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോഴും പറയും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പ് സ്ട്രെസ് ഫീൽഡിനുപകരം നിങ്ങൾക്ക് ഇതിനെ ഒരു ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ എന്ന് വിളിക്കാം ഇത് ന്യായമായും മതി നമ്മൾ ശരിയായ ദിശയിലാണെന്ന ആത്മവിശ്വാസവും ഇത് നൽകുന്നു ഈ സമവാക്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഫലം നൽകുന്നു എന്നതിന് നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റൽ തെളിവുണ്ട് എക്സ്പെരിമെന്റൽ ഫ്രിഞ്ച് പാറ്റേണിൽ നിന്നുള്ള KI K II എന്നിവയുടെ മൂല്യം എന്താണ് എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ ഇത് ചെയ്യുന്നതിന് നിങ്ങൾ 6 പാരാമീറ്റർ മോഡ് I 6 പാരാമീറ്റർ മോഡ് II സൊല്യൂഷൻ എന്നിവ മാതൃകയാക്കേണ്ടതുണ്ട് ഒടുവിൽ KI K II എന്നിവയുടെ മൂല്യം എന്താണെന്ന് അറിയുക ഇപ്പോൾ നിങ്ങൾക്ക് 3 പാരാമീറ്റർ സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ 4 പാരാമീറ്റർ സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് 5 പാരാമീറ്റർ സൊല്യൂഷനും 6 പാരാമീറ്റർ സൊല്യൂഷനും ഉണ്ട് നമ്മൾ പദങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിരീക്ഷിച്ച ഡാറ്റാ പോയിന്റുകളിലേക്ക് ഫ്രിഞ്ചസ് സുഗമമായി യോജിക്കുന്നു ഇതിന്റെ നല്ല ഒരു രേഖാചിത്രവും നിങ്ങൾ തയ്യാറാക്കുന്നു ഇതുപോലുള്ള ഷേഡിംഗ് നിങ്ങൾ വരയ്ക്കേണ്ടതില്ല നിങ്ങൾ ഇത് ഒരു കോണ്ടൂർ ആയി വരയ്ക്കുക ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ഇത് വലുതാക്കാം അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഡാറ്റ പോയിന്റുകൾ നൽകുന്നു ഇവിടെ പോലും 1 അല്ലെങ്കിൽ 2 ഡാറ്റ പോയിന്റുകൾ അല്പം ഓഫാണെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്കറിയാമോ ഇത് സംഭവിക്കുന്നു ഒരു പരീക്ഷണത്തിൽ ഒരുതരം സ്കാറ്റർ ഉണ്ടാകും അതിനാൽ ഒരു മോഡ് I സാഹചര്യത്തിനും മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിനും മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ശരിയാണെന്നതിന്റെ ഒരു പ്രകടനമാണിത് ഇവിടെ മോഡ് I പ്രധാനമാണ് മോഡ് IIഅതിന്റെ ചെറിയ മൂല്യമുണ്ട് അടുത്തുള്ള സ്ഥലത്ത് നിങ്ങൾ സ്കെച്ച് വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു രേഖ വരയ്ക്കുകയും ഫ്രിൻജിന്റെ ക്രമം പോലും ഇടുക എനിക്ക് ഫ്രിഞ്ച് ഓർഡർ 1 2 ഉണ്ട് ഒപ്പം ക്രാക്കിന് മുമ്പായി ഇത് ഫ്രിഞ്ച് ഓർഡർ 1 ആണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രിഞ്ച് ഓർഡറുകളുണ്ട് എനിക്ക് ഇത് ഫ്രിഞ്ച് ഓർഡർ 3 4 5 ഉണ്ട് ഇവിടെയും ഫ്രിഞ്ച് ഓർഡർ വർദ്ധിക്കുന്നു കാരണം ഇത് കോൺടാക്റ്റ് സ്ട്രെസ് ഫീൽഡ് പോലെയാണ് അതിനാൽ ഇവിടെ വീണ്ടും ഫ്രിഞ്ച് ഓർഡറുകൾ വർദ്ധിക്കുന്നു ഏത് മാനദണ്ഡമനുസരിച്ചായാലും ഇത് വളരെ സങ്കീർണ്ണമായ ഒരു ഫീൽഡാണ് ഇത് വളരെ സങ്കീർണ്ണമായ ഒരു ഫീൽഡാണെന്ന് നിങ്ങൾക്കറിയാം മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾക്ക് അത്തരമൊരു സങ്കീർണ്ണമായ സാഹചര്യം പോലും ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിന്റെ ഒരു പ്രകടനമാണിത് ഇപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഐസോപാച്ചിക്സ് എന്ന് അതാണ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 കോൺടൂറുകൾ ഇവിടെ വീണ്ടും ഫ്രിഞ്ചസിന്റെ മാറ്റങ്ങളുടെ സാന്ദ്രത മാത്രമേ നിങ്ങൾ കാണൂ ഫ്രിഞ്ച് പാറ്റേണിന്റെ ജ്യാമിതിയിൽ വലിയ മാറ്റമൊന്നുമില്ല മറുവശത്ത് ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജ്യാമിതീയ മാറ്റങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു നിങ്ങൾക്ക് ആ വശം നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതേസമയം വളരെ സൂക്ഷ്മമായ ചില ആശയങ്ങൾ കണ്ടെത്താൻ ഇവിടെ ശ്രമിക്കാം പക്ഷെ പ്രധാനം സാന്ദ്രത മാറ്റം മാത്രമാണ് മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് മോഡ് I മോഡ് II മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് നോക്കിയ ശേഷം നമ്മൾ മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങളും പരിശോധിക്കും ഇത് മോഡ് I പ്ലസ് മോഡ് II നുള്ളതാണ് ഇത് പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനായി ലഭിക്കും എനിക്ക് യു വി എന്നിവയുടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ഇത് വീണ്ടും രണ്ട് ശ്രേണികളുടെ സംഗ്രഹമായി നൽകിയിരിക്കുന്നു ഒന്ന് മോഡ് I ന് സമാനമാണ് മറ്റൊന്ന് മോഡ് II ന് സമാനമാണ് n 1 മുതൽ ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടുന്നു 1 ബൈ 2 G ഓഫ് AI nr പവർ n ബൈ 2 ഇന്റു 3 മൈനസ് 4 ന്യൂ കോസ് n ബൈ 2 തീറ്റ മൈനസ് n ബൈ 2 കോസ് n ബൈ 2 മൈനസ് 2 തീറ്റ പ്ലസ് n ബൈ 2 പ്ലസ് മൈനസ് 1 ഹോൾ പവർ n ഇന്റു കോസ് n ബൈ 2 തീറ്റ നിങ്ങൾക്ക് ഉള്ള v ഘടകം മൈനസ് 4 ന്യൂ സൈൻ n ബൈ 2 തീറ്റ പ്ലസ് n ബൈ 2 സൈൻ n ബൈ 2 മൈനസ് 2 തീറ്റ മൈനസ് ഓഫ് nബൈ 2 പ്ലസ് മൈനസ് 1 ഹോൾ പവർ n ഇന്റു സൈൻ n ബൈ 2 തീറ്റ മോഡ് II നായി നിങ്ങൾക്ക് ഇത് ഉണ്ട് ഇത് മൈനസ് n ഈക്വൽ റ്റു 1 മുതൽ ഇൻഫിനിറ്റി വരെ 1 ബൈ 2 GA II nr പവർ n ബൈ 2 യു ഘടകത്തിന് ഇത് 3 മൈനസ് 4 ന്യൂ സൈൻ n ബൈ 2 തീറ്റയാണ് ഓർക്കുക ഞാൻ ഇത് ന്യൂ ആയി വായിച്ചു ഇത് v എന്ന് ആശയക്കുഴപ്പത്തിലാക്കരുത് രണ്ടും സമാനമാണെന്ന് ഫോണ്ട് കാണുമ്പോൾ തോന്നും സൂക്ഷ്മമായ വ്യത്യാസം മാത്രമേയുള്ളൂ ഇത് 3 മൈനസ് 4 ന്യൂ ന്യു എന്നത് പോയ്സൺസ് റേഷ്യോ ആണ് സൈൻ n ബൈ 2 തീറ്റ മൈനസ് n ബൈ 2 സൈൻ n ബൈ 2മൈനസ് 2 തീറ്റ പ്ലസ് n ബൈ 2 മൈനസ് ഓഫ് മൈനസ് 1 പവർ n സൈൻ n ബൈ 2 തീറ്റ മൈനസ് 3 മൈനസ് 4 ന്യൂ കോസ് എൻ ബൈ 2 തീറ്റ മൈനസ് എൻ ബൈ 2 കോസ് എൻ ബൈ 2 മൈനസ് 2 തീറ്റ പ്ലസ് എൻ ബൈ 2 മൈനസ് ഓഫ് മൈനസ് 1 ഹോൾ പവർ എൻ കോസ് എൻ ബൈ 2 തീറ്റ ജി എന്നത് ഷിയർ മോഡുലസ് ആണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് ഒരു പ്ലെയിൻ സ്ട്രെയിൻ ലഭിച്ചുകഴിഞ്ഞാൽ ഒരേ സെറ്റ് എക്സ്പ്രഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂ നു പകരം ന്യൂ പ്ലസ് 1 ഉപയോഗിച്ച് മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ നിർമ്മിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കോഴ്സിന്റെ ഈ തലത്തിൽ മൾട്ടി പാരാമീറ്റർ സ്ട്രെസും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങളും ഉണ്ട് ഇവ വളരെ സമഗ്രമാണ് പരീക്ഷണാത്മകമായി ലഭിച്ച ഫ്രിഞ്ച് പാറ്റേണുകളെ അവർ നന്നായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ഇവ തെളിയിച്ചിട്ടുണ്ട് സ്ട്രെസ് ഫീൽഡിനായി നമ്മൾ ഇത് കണ്ടു ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിനായി നമ്മൾ ഇത് കാണും നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വിദ്യയാണ് മൊയ്റോ നമ്മൾ നോക്കിയ പ്രശ്നങ്ങൾക്ക് യു ഡിസ്പ്ലേസ്മെന്റിനും വി ഡിസ്പ്ലേസ്മെന്റിനും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമ്മൾ കാണും മോഡ് I നും മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിനും ഇത് നമ്മൾ കാണും ഇവിടെ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിനുള്ള കോഎഫിഷ്യന്റ്സ് നിങ്ങൾക്ക് വീണ്ടും A I1 A I2 എന്നിങ്ങനെ ഉണ്ട് സ്ട്രെസ് ഫീൽഡിൽ നിന്ന് ഇവ ഇതിനകം നിർണ്ണയിക്കപ്പെട്ടതാണ് പരീക്ഷണം എന്താണ് ചെയ്യുന്നത് ഫോട്ടോഇലാസ്റ്റിറ്റിയിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഎഫിഷ്യനട്സ് ഉണ്ട് ഈ കോഎഫിഷ്യന്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് പോലും പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കാം മോഡ് I സാഹചര്യത്തിനായി നിങ്ങൾ കാണുന്നത് അതാണ് ഇവിടെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് വി ഡിസ്പ്ലേസ്മെന്റ് കൂടാതെ നിങ്ങൾക്ക് ഫ്രിഞ്ചുകളുടെ ലേബലിംഗും ഉണ്ട് നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ്ന്റിലേക്കു വന്നുകഴിഞ്ഞാൽ ഇവയെ ഐസോതെറ്റിക്സ് എന്ന് വിളിക്കുന്നു ഒപ്പം ഫ്രിഞ്ചെസിനു പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാകും ഇവിടെയാണ് നിങ്ങൾക്ക് ക്രാക്ക് ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക V ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിന്റെ വളരെ സാധാരണമായ ഒരു രേഖാചിത്രമാണിത് ഞാൻ പാരാമീറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജ്യാമിതിയിൽ വ്യക്തമായ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും മൊയ്റെയെ അടിസ്ഥാനമാക്കി നടത്തിയ പരീക്ഷണമാണിത് ഇവിടെ പോലും ഫ്രിഞ്ച് പാറ്റേണുകളിൽ ദൃശ്യമായ മാറ്റങ്ങളൊന്നുമില്ല സാന്ദ്രത മാത്രം മാറുന്നു സാന്ദ്രത വർദ്ധിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് നിങ്ങൾക്കു ഇവിടെ കാണാം ഉദാഹരണത്തിന് 6 പാരാമീറ്ററിനും 3 പാരാമീറ്ററിനും ഫ്രിഞ്ചുകളുടെ എണ്ണം വർദ്ധിച്ചു ഇവിടെ വീണ്ടും ഫ്രിഞ്ചുകളുടെ എണ്ണം വർദ്ധിച്ചു അതിനാൽ ആ വീക്ഷണകോണിൽ നിന്ന് ഫോട്ടോ ഇലാസ്റ്റിറ്റി ഫ്രാക്ച്ചർ മെക്കാനിക്സിന്റെ ഗവേഷണത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചു എന്ന് പറയാം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഇതാണ് നിങ്ങൾക്ക് ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേൺ ഉണ്ട് കാരണം ഫോട്ടോഇലാസ്റ്റിക് വിശകലനത്തെ അടിസ്ഥാനമാക്കിയാണ് കോഎഫിഷ്യന്റ്സ് നിർണ്ണയിക്കുന്നത് ഈ കോഎഫിഷ്യന്റ്സ് കഴിയുന്നത്ര എണ്ണം പദങ്ങൾ എടുത്ത് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇതാണ് സാധാരണ വി ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഇതാണ് സാധാരണ യു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് മോഡ് I ന്റെ കാര്യത്തിൽ നമ്മൾ 8 പാരാമീറ്ററുകൾ വരെ പോയി ഞാൻ 8 പാരാമീറ്ററുകൾ വരെ പോകും ഫ്രിഞ്ച് പാറ്റേണുകളിൽ വലിയ ജ്യാമിതീയ മാറ്റങ്ങളൊന്നുമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനാൽ നിങ്ങൾ അത്തരമൊരു ചിത്രം വരച്ചാലും മതിയാകും വാസ്തവത്തിൽ ഇത് വളരെ സാധാരണമാണ് v ഡിസ്പ്ലേസ്മെന്റ് വളരെ സാധാരണമാണ് ഇതുപോലുള്ള വി ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൽ നിങ്ങൾ കാണുന്ന നിമിഷം നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടെന്നും ഈ രീതിയിൽ പ്രതിനിധീകരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് ഉണ്ടെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും സമാനമായി മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിനുള്ള ഫ്രിഞ്ച് പാറ്റേണും നമ്മൾ കാണും ഇവിടെ വീണ്ടും പ്രക്രിയ സമാനമാണ് ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണിൽ നിന്ന് സീരീസ് രൂപീകരിക്കുന്ന കോഎഫിഷ്യന്റ്സ് ലഭിച്ചു അത് ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ പുനർനിർമ്മിച്ചു 3 പാരാമീറ്ററുകൾ 4 പാരാമീറ്ററുകൾ 5 പാരാമീറ്ററുകൾ 6 പാരാമീറ്ററുകൾ എന്നിവയ്ക്കായി നിങ്ങൾ കണ്ടെത്തി ഇത് ഒരു മിക്സഡ് മോഡ് സാഹചര്യത്തിനായുള്ള സാധാരണ ഫ്രിഞ്ച് ഫീൽഡാണ് മോഡ് I പ്ലസ് മോഡ് II ഇവയെ ഐസോതെറ്റിക്സ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് യു ഡിസ്പ്ലേസ്മെന്റ് ഐസോതെറ്റിക്സും വി ഡിസ്പ്ലേസ്മെന്റ് ഐസോതെറ്റിക്സും ഉണ്ട് നോക്കൂ ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് നമ്മൾ ത്രെഡ്ബെയർ കണ്ടു സ്ട്രെസ് ഫീൽഡിന്റെ വികസനം ക്രാക്ക് പ്രോബ്ലെങ്ങൾക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ എന്നിവ പരിശോധിച്ചു സ്ട്രെസ് ഫീൽഡിനായുള്ള സിംഗുലാർ സൊല്യൂഷനിലൂടെ നമ്മൾ ആരംഭിച്ചു തുടർന്ന് നമ്മൾ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളിലേക്ക് പോയി മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങളും നമ്മൾ കണ്ടു മൾട്ടി പാരാമീറ്റർ സൊല്യൂഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അവസാന ക്ലാസായിരിക്കും ഇത് ഫ്രാക്ചർ പ്രശ്നങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന സിംഗുലാർ ടെം ഇതാണ് നിലവിലുള്ള എല്ലാ ഫ്രാക്ചർ സിദ്ധാന്തങ്ങളും വിശകലനത്തിനായി ഈ ആദ്യ പദം മാത്രം ആണ് ഉപയോഗിക്കുക ഇപ്പോൾ ചില സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവിടെ അവർ ടി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ പദം എടുക്കുന്നു അതിനെ അവർ ക്യൂ എന്ന് വിളിക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ ടേമിനെ അടിസ്ഥാനമാക്കിയുള്ള ഫ്രാക്ച്ചർ സിദ്ധാന്തങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഭാവിയിലായിരിക്കാം ഉയർന്ന ഓർഡർ പദങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ ഉയർന്ന ഓർഡർ സൊല്യൂഷൻ പ്രധാനമാകും ഇന്ന് മുതൽ ഞങ്ങളുടെ എല്ലാ ചർച്ചകൾക്കും നമ്മൾ സിംഗുലാർ സ്ട്രെസ് ഫീൽഡ് മാത്രമേ ഉപയോഗിക്കൂ പ്ലാസ്റ്റിക് സോൺ കണ്ടെത്താൻ നമ്മൾ ഇത് ഉപയോഗിക്കും ഫ്രാക്ച്ചർ സിദ്ധാന്തങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഇത് ഉപയോഗിക്കും വിവിധതരം പ്രശ്നങ്ങൾക്കുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എന്താണെന്ന് കണ്ടെത്താനും നമ്മൾ താൽപ്പര്യപ്പെടുന്നു വിവിധ ജ്യാമിതികൾക്കും ലോഡിംഗിനുമുള്ള SIF അതിനാൽ വിവിധ ജ്യാമിതികൾക്കും ലോഡിംഗിനുമായി നമ്മൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എടുക്കും നോക്കൂ ഇതുവരെ ക്രാക്ക് സർഫേസ് ഫ്രീ ആയിട്ടുള്ള പ്രോബ്ലെങ്ങളുടെ ക്ലാസ് മാത്രമേ നമ്മൾ പരിശോധിച്ചിട്ടുള്ളൂ ഇവിടെ നിങ്ങൾ കണ്ടെത്തുന്നത് രണ്ട് സിമെട്രിക്കൽ ലോഡുകളാൽ ക്രാക്ക് തുറക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉപയോഗിച്ച് ക്രാക്ക് തുറക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു സോളിഡിൽ ഉള്ള ക്രാക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സാഹചര്യമുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു പ്രഷർ പാത്രം ഉണ്ട് അതിൽ ഒരു നോസിലും മൂലയിൽ നിന്ന് ഒരു ക്രാക്കും വരുന്നു ഇതൊരു കോർണർ ക്രാക് ആണ് വാസ്തവത്തിൽ ക്ലാസുകളിലൊന്നിൽ വിദ്യാർത്ഥികൾ ചോദിച്ചു നിങ്ങൾ വിശകലനം ചെയ്യുന്നത് തിക്നെസ്സ് ക്രാക്ക് മാത്രമാണ് എന്നാൽ എല്ലാ പ്രായോഗിക ജ്യാമിതിയിലും നിങ്ങൾക്ക് ഉപരിതലത്തിൽ വിള്ളലുകൾ ഉണ്ട്അവ കോണുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഈ സിദ്ധാന്തങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം വാസ്തവത്തിൽ ഈ സുപ്രധാന ക്ലാസ് പ്രശ്നങ്ങൾക്കുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ ചെയ്യും രസകരമായ മറ്റൊരു വശമുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഉപരിതല ക്രാക്ക് ഉണ്ടാകുമ്പോൾ ക്രാക്ക് പ്രാഥമികമായി തിക്നെസ്സ് ദിശയിലേക്ക് നീങ്ങുമെന്ന് ഈ ക്ലാസിലെ ചർച്ചയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കും ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രാക്ക് ഫ്രണ്ടിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ഞാൻ ഇതിനകം സൂചിപ്പിച്ചതായി കാണുക എന്തിനാണ് നമ്മൾ തിക്നെസ്സ് ക്രാക്ക് വച്ചു ആരംഭിക്കുന്നത് അവ വിശകലനം ചെയ്യുന്നത് ലളിതമാണ് അനന്തമായ പ്ലേറ്റിൽ ഒരു സെന്റർ ക്രാക്കിനായി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ സിഗ്മ റൂട്ട് പൈ a എന്ന് നമുക്ക് ലഭിച്ചു മോഡ് I നുള്ള വളരെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണിത് മോഡ് II നെ സംബന്ധിച്ചിടത്തോളം ഇത് ടോ റൂട്ട് പൈ a ഉം മറ്റും ആണ് അതിനാൽ അതൊരു അടിസ്ഥാന പരിഹാരമാണ് ഏതൊരു ഫൈനൈറ്റ് ജ്യാമിതിക്കും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുംഅത് എ ബൈ w യുടെ ഒരു ഫംഗ്ഷനായിരിക്കും അതിനാൽ നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് തിക്നെസ്സ് ക്രാക്ക് ഉണ്ടാകുമ്പോൾഅല്ലെങ്കിൽ നിങ്ങൾക്ക് എംബെഡഡ് ക്രാക്ക് ഉണ്ടാകുമ്പോൾ അല്ളെങ്കിൽ നിങ്ങൾക്ക് ഉപരിതല ക്രാക്ക് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ മാറുന്നു നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മാനസിക ധാരണ ഏതാണ് ഞാൻ ഉപരിതല ക്രാക്കിലേക്ക് പോകുമ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കുറയുമോ അതോ തിക്നെസ്സ് ക്രാക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വർദ്ധിക്കുമോ ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാന അടിത്തറയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചർച്ചയിലൂടെ നിങ്ങൾ നേടാൻ പോകുന്നത് ബുദ്ധിമാനായ ഒരു ഉപയോക്താവ് അവൻ എന്തുചെയ്യും അവൻ ഈ അധ്യായത്തിലേക്ക് പോകില്ല വിവിധതരം ലോഡിംഗ് സാഹചര്യങ്ങൾക്കായി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറുകളുടെ സംഗ്രഹം ഉള്ള ഒരു ഹാൻഡ് ബുക്കിലേക്ക് അദ്ദേഹം പോകും ഫലം നേരിട്ട് എടുത്ത് നിങ്ങളുടെ ഡിസൈനിനായി ഉപയോഗിക്കുക മറ്റൊരു ഘട്ടത്തിലും നിങ്ങൾക്കത് ചെയ്യാം പക്ഷെ ഫ്രാക്ചർ മെക്കാനിക്സ് എന്താണെന്ന് മനസിലാക്കാൻ നിങ്ങൾ ഈ അഭ്യാസത്തിലൂടെ പോകേണ്ടതുണ്ട് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ വിലയിരുത്താനാകും അനലിറ്റിക്കൽ മെത്തേഡിനെ അടിസ്ഥാനമാക്കി ഇത് വിലയിരുത്താം നിങ്ങൾ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെസ് ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയുള്ളതാകാം വാസ്തവത്തിൽ ഈ സന്ദർഭത്തിൽ മാത്രം വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ സമീപനം വളരെ ഉപയോഗപ്രദമാണെന്ന് ഞാൻ പറഞ്ഞു വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷന്റെ ഒരു ഗുണം ക്രാക്ക് പ്രതലങ്ങൾ ലോഡുചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷനുകൾ കോയിൻ ചെയ്യാനാകും വിവിധ പരിഹാരങ്ങളിൽ ഒരു സൊല്യൂഷൻ അനലിറ്റിക്കൽ രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കമ്പ്യൂട്ടേഷണൽ ശ്രമങ്ങൾ വളരെ എളുപ്പമാണ് അതിനാൽ പ്രശ്നത്തിന്റെ ജ്യാമിതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷനുണ്ട് സ്ട്രെസ് ഇന്റെൻന്സിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ എന്താണ് ഗ്രീൻസ് ഫങ്ഷൻ അപ്പ്രോച്ച് നമ്മൾ കാണും നമ്മൾ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലായതിനാൽ സൂപ്പർപോസിഷന്റെ തത്വം സാധുവാണ് ഈ തത്ത്വം നടപ്പിലാക്കുന്നതിലൂടെ പരിഹരിക്കാവുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കാണും അതിനാൽ അനലിറ്റിക്കൽ മെത്തേഡുകൾക്ക് ശേഷം നിങ്ങൾക്ക് ന്യൂമെറിക്കൽ ടെക്നിക് ഉണ്ട് അതിൽ ബൌണ്ടറി കോലോക്കഷൻ എന്നറിയപ്പെടുന്നു ഫ്രാക്ച്ചർ പ്രോബ്ലെങ്ങൾക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ റിപ്പോർട്ടുചെയ്യുന്നതിന് ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ഉണ്ട് ഇപ്പോൾ ബൌണ്ടറി എലമെന്റ് രീതിയും ഉപയോഗിക്കുന്നു ബൌണ്ടറി കൊലോക്കഷൻ അല്ലെങ്കിൽ ഫൈനൈറ്റ് എലെമെന്റ് മെത്തേഡ് ഉപയോഗിച്ച് ആളുകൾ സൊല്യൂഷൻ വികസിപ്പിച്ചെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ആളുകൾക്ക് അവരുടെ റിസൾട് ഉപയോഗിക്കുന്നതിന് അതിനെ അടിസ്ഥാനമാക്കി എംപിരിക്കൽ റിലേഷൻ നൽകാനും അവർ ശ്രമിച്ചു എല്ലാ ഫ്രാക്ചർ മെക്കാനിക്സ് കോഴ്സുകളിലും നിങ്ങൾ കാണുന്ന ഒരു പ്രവണതയാണിത് ഫലത്തിന്റെ ഉറവിടം ബൌണ്ടറി കൊലോക്കഷനിൽ നിന്നോ ഫൈനൈറ്റ് എലെമെന്റിൽ നിന്നോ ആയിരിക്കാമെങ്കിലും അവ പരിഹാരത്തെ എംപിരിക്കൽ റിലേഷന്റെ രൂപത്തിൽ ഒരു ശ്രേണിയുടെ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നു ഈ ശ്രേണികൾ അനലറ്റിക്കൽ റിസൽട്ടിൽ നിന്ന് ലഭിച്ചതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇല്ല ഇത് ന്യൂമെറിക്കൽ ടെക്നിക്കിൽ നിന്നാകാം അത്തരത്തിലുള്ള എക്സ്പ്രഷൻ നമ്മൾ കാണും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികാസത്തിന് എക്സ്പെരിമെന്റൽ വിദ്യകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഫോട്ടോഇലാസ്റ്റിറ്റിയുടെ പങ്ക് നമ്മൾ വളരെയധികം കണ്ടു ചില സമയങ്ങളിൽ കോസ്റ്റിക് രീതിയെക്കുറിച്ചും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ പ്ലെയ്ൻ സ്ട്രെസ് അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നോർമൽ സ്ട്രെസ് സാഹചര്യത്തിൽ ഒരു ലാറ്ററൽ കോൺട്രാക്ഷൻ കാര്യമായിരിക്കില്ല എന്ന് കണ്ടു എന്നാൽ നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടാകുമ്പോൾ ക്രാക്കിന് സമീപത്തായി നിങ്ങൾ ഒരു ഡിംപിൾ രൂപീകരണം കാണും ഇത് ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക് ആയി ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുത്ത കോസ്റ്റിക്സ് രീതി ഉണ്ട് സ്ട്രെയിൻ ഗേജുകളുടെ രീതിയും ആളുകൾ പരീക്ഷിച്ചു നിങ്ങൾക്കറിയാമോ ഇത് വളരെ സാധാരണവും എളുപ്പത്തിൽ ലഭ്യവുമാണ് സമയം അനുവദിക്കുകയാണെങ്കിൽ സ്ട്രെയിൻ ഗേജുകൾ ഉപയോഗിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ വിലയിരുത്താമെന്നും നമ്മൾ കാണും കൂടാതെ നിങ്ങൾക്ക് മൊയ്റോയുടെ ഉപയോഗം ഉണ്ട് നമ്മൾ ഐസോതെറ്റിക്സ് കണ്ടു തുടർന്ന് നിങ്ങൾക്ക് ഹോളോഗ്രാഫിയെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണങ്ങളും കാണാൻ കഴിയും ഐസോപാച്ചിക്സ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 കോൺടൂറുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കോഹെറന്റ് ഗ്രേഡിയന്റ് സെൻസർ എന്നറിയപ്പെടുന്ന കോസ്റ്റിക്സിന്റെ ഒരു വ്യതിയാനം കണ്ടു ഫ്രാക്ച്ചർ പ്രോബ്ലെങ്ങൾക്കായി ഇത് വീണ്ടും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ അധ്യായത്തിൽ നമ്മൾ എന്തുചെയ്യും പ്രാഥമികമായി നമ്മുടെ ശ്രദ്ധ അനലിറ്റിക്കൽ മെത്തേഡ് ന്യൂമെറിക്കൽ മെത്തേഡ്സ് ആയ ബൌണ്ടറി കൊലോക്കഷൻ ഫൈനൈറ്റ് എലെമെന്റ് മെത്തേഡ് പോലുള്ള വിദ്യകളിൽ നിന്നുള്ള ചില ഫലങ്ങളിലേക്കും പരിമിതപ്പെടുത്തും സമയം അനുവദിക്കുകയാണെങ്കിൽ കോഴ്സിന്റെ അവസാനത്തിൽ എക്സ്പെരിമെന്റൽ ടെക്നിക്കിനെ അടിസ്ഥാനമാക്കി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ വിലയിരുത്താമെന്ന് നമ്മൾ കാണും സ്ട്രെസ് ഫംഗ്ഷനെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം SIF ന്റെ വിലയിരുത്തൽ ഏറ്റെടുക്കും നിങ്ങൾ ഓർക്കണംZ സ്ട്രെസ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നമ്മൾ ഇതിനകം നിർവചിച്ചു അതിനാൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് ലിമിറ്റ് z നോട്ട് ടെൻഡ്സ് റ്റു 0 റൂട്ട് ഓഫ് 2 പൈ z നോട്ട് ഇന്റു z z നോട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ Z നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കെ യുടെ നിർവചനം ലഭിക്കും കൂടാതെ വെസ്റ്റർഗാർഡ് സമീപനത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പലതരം പ്രോബ്ലെങ്ങൾക്ക് ഇസഡ് ലഭിക്കും സത്യത്തിൽവെസ്റ്റർഗാർഡ് തന്നെ നിരവധി പ്രശ്നങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നീട് ഇർവിൻ നിരവധി ക്രാക്ക് പ്രോബ്ലം ചേർത്തു ഫ്രാക്ച്ചർ സ്വഭാവം വിലയിരുത്തുന്നതിന് SIF ന്റെ മൂല്യം വളരെ പ്രധാനമായതിനാൽ കെ യുടെ മൂല്യം കണ്ടെത്തുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു SIF എങ്ങനെ നിർണ്ണയിക്കാമെന്ന് നമ്മൾ കാണും ഇതുപോലുള്ള ഒരു പ്രോബ്ലെംംനമ്മൾ എടുക്കും കോൺസെൻട്രേറ്റഡ് ലോഡ് ഉപയോഗിച്ച് തുറക്കുന്ന ഒരു ക്രാക്ക് എനിക്കുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഫിസിക്കൽ സാഹചര്യം എന്താണ് എനിക്ക് ഒരു റിവേറ്റഡ് ഹോൾ ഉണ്ടെന്നും അവിടെ നിങ്ങൾക്ക് ഒരു ക്രാക്ക് ഉണ്ടെന്നും അത് തുറക്കുകയാണെന്നും കരുതുക ഇതുപോലുള്ള ഒരു പരിഹാരത്തെ അടിസ്ഥാനമാക്കി അത്തരം ഒരു സാഹചര്യം മോഡൽ ചെയ്യാം ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ലഭ്യമാണ് എന്നത് നമ്മുടെ ഭാഗ്യമാണ് ഈ ക്ലാസ് പ്രശ്നത്തിനായുള്ള സ്ട്രെസ് ഫംഗ്ഷൻ Z 1ഈക്വൽ റ്റു P a ഡിവൈഡഡ് ബൈ പൈ z ഇന്റു റൂട്ട് ഓഫ് r z സ്ക്വയർഡ് മൈനസ് a സ്ക്വയർഡ് സ്ട്രെസ് ഫീൽഡ് വികസിപ്പിക്കുമ്പോൾ കാണുക നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റി തുടർന്ന് നമ്മൾ സമീപമുള്ള ഫീൽഡ് സൊല്യൂഷൻ നേടി സമാനമായ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്യണം അതിനാൽ നിങ്ങൾ ഇത് ക്രാക്ക് ടിപ്പ് ലേക്ക് മാറ്റണം ഉറവിടം മാറ്റുന്നതിന് z ഈക്വൽ റ്റു z നോട്ട് പ്ലസ് എ എന്ന് മാറ്റി കൊടുക്കുക സ്ട്രെസ് ഫംഗ്ഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടറിന്റെ നിർവചനം ഉണ്ട് ഒപ്പം ലിമിറ്റ് z നോട്ട് ടെൻഡ്സ് റ്റു 0 കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കെ എന്ന എക്സ്പ്രഷൻ ലഭിക്കും അതിനാൽ നമ്മൾ z നോട്ട് പ്ലസ് എ മാറ്റിസ്ഥാപിക്കും എക്സ്പ്രഷൻ എങ്ങനെ കാണപ്പെടും എക്സ്പ്രഷൻ ഈ രൂപത്തിലാണ് എനിക്ക് ഇത് പി എ ഡിവൈഡഡ് ബൈ പൈ ഇന്റു z നോട്ട് പ്ലസ് എ ഇന്റു റൂട്ട് ഓഫ് z നോട്ട് ഇന്റു z നോട്ട് പ്ലസ് 2 എ നിങ്ങൾക്കറിയാമോ z നോട്ട് പ്ലസ് എ മാറ്റിസ്ഥാപിച്ചതിന് ശേഷം ഈ എക്സ്പ്രഷൻ ലളിതമായിരിക്കുന്നു അടുത്ത ഘട്ടം എന്താണ് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നിർവചനം ഞാൻ നോക്കണം നിർവചനം ഇതുപോലെയാണ് ലിമിറ്റ് z നോട്ട് ടെൻഡ്സ് റ്റു 0 റൂട്ട് ഓഫ് 2 പൈ z നോട്ട് ഇന്റു z നോട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷൻ ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലുള്ള എക്സ്പ്രഷൻ ഉണ്ട് ലിമിറ്റ് z നോട്ട് ടെൻഡ്സ് റ്റു 0 റൂട്ട് ഓഫ് 2 പൈ z നോട്ട് P a ഈ എക്സ്പ്രഷൻ പുനർനിർമ്മിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെയുണ്ട് പൈ z നോട്ട് പ്ലസ് a ഇന്റു റൂട്ട് ഓഫ് z നോട്ട് ഇന്റു റൂട്ട് ഓഫ് 2 a ഇന്റു 1 പ്ലസ് zനോട്ട് ബൈ 2 a ഹോൾ പവർ ഹാഫ് ഇപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഇത് ലളിതമാക്കാനും കെ യുടെ മൂല്യം ഇതുപോലെയാക്കാനും കഴിയും പി ബൈ റൂട്ട് ഓഫ് പൈ എന്ന് കിട്ടും ക്രാക്ക് ടിപ്പിന്റെ മധ്യഭാഗത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് കേന്ദ്രീകരിക്കുമ്പോൾ ഇതാണ് കെ നിങ്ങൾക്ക് ലഭിച്ച ഫലത്തിൽ നിന്ന് രസകരമായ എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധേയമായ എന്തെങ്കിലും ഉണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു വശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലെം ഏറ്റെടുത്തത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നവയെല്ലാം എന്താണ് സ്ട്രെസും ക്രാക്കിന്റെ നീളവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ക്രാക്കിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വർദ്ധിക്കുന്നു സെന്റർ ക്രാക്ക് പ്രശ്നത്തിനായി നിങ്ങൾക്ക് സിഗ്മ റൂട്ട് പൈ എ ഉള്ളപ്പോൾ കെ അങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് അതിനാൽ എ കൂടുന്നതിനനുസരിച്ച് കെ കൂടും ഈ പ്രശ്നത്തിൽ എന്ത് സംഭവിക്കും KI ഈക്വൽ റ്റു P ബൈ റൂട്ട് ഓഫ് പൈ a ഉണ്ട് അതിനാൽ എ വർദ്ധിക്കുമ്പോൾ കെ കുറയാൻ പോകുന്നു വാസ്തവത്തിൽ ഇത് വളരെ ഉപയോഗപ്രദമായ പ്രോബ്ലെമാണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക ക്രാക്കിന് സ്വയം അടയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം അതാണ് ക്രാക്ക് സ്വയം വളരുകയും സ്വയം നിർത്തുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള പരിശോധന നടത്താനും നിങ്ങളുടെ ഫ്രാക്ചർ മെക്കാനിക്സ് ധാരണ പരിശോധിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു പരീക്ഷണം നടത്താം അതിനാൽ നിങ്ങൾ ക്രാക്ക് പ്രതലങ്ങളിൽ വലിക്കുമ്പോൾ ക്രാക്ക് കൂടുന്നതിനനുസരിച്ച് കെ കുറയുന്നു എന്നാൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ ക്രാക്ക് അവസാനിക്കും വാസ്തവത്തിൽ നമ്മൾ പിന്നീട് ക്രാക്ക് പ്രൊപോഗേഷന്റെ മോഡലിംഗിനെക്കുറിച്ച് സംസാരിക്കുന്ന പാരീസ് നിയമം പഠിക്കാൻ പോകുന്നു അവിടെ സെന്റർ ക്രാക്കിന്റെ രണ്ട് കേസുകൾക്കും ഈ മോഡൽ സാധുതയുള്ളതാണെന്ന് നമ്മൾ കാണും അവിടെ ക്രാക്ക് ദൈർഘ്യത്തിന്റെ ഫങ്ഷൻ ആയി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ വർദ്ധിക്കുന്നു ക്രാക്ക് ദൈർഘ്യത്തിന്റെ ഫങ്ഷൻ ആയി സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കുറയുന്നു എന്നതാണ് വൈരുധ്യം ഉള്ള ഉദാഹരണം രണ്ട് കേസുകളും നമ്മൾ കാണുകയും പാരീസ് നിയമം ഉപയോഗപ്രദമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതിനാൽ ആ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലെമാണ് കോൺസെൻട്രേറ്റഡ് ലോഡിൽ നിന്ന് എനിക്കത് ലഭിക്കുമ്പോൾ ഇത് റിവേറ്റഡ് ദ്വാരത്തിനും ഇത് മാതൃകയാക്കാം അത്തരം പ്രോബ്ലെങ്ങൾക്ക് ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒന്നിലധികം പരിഹാരങ്ങൾ നിർമ്മിക്കാനും കഴിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്രോബ്ലെമുണ്ട് ഇപ്പോൾ നമ്മൾ മറ്റൊരു സാഹചര്യം ഏറ്റെടുക്കും അവിടെ സെന്ററിൽ നിന്ന് അകലെയുള്ള സിമെട്രിക്കൽ ലൂപ്പുകളാൽ ഞാൻ ക്രാക്ക് തുറന്നു നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുന്നു നിങ്ങൾ കണ്ടെത്തുന്നത് ഈ പ്രോബ്ലെത്തിന് പോലും നിങ്ങൾക്ക് ഒരു വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ ഉണ്ട് ഈ പ്രശ്നത്തിനായി നിങ്ങൾക്ക് വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ ഉള്ളപ്പോൾഅതുപയോഗിച്ച് പ്രോബ്ലെത്തിന്റെ പാരാമീറ്ററുകൾ കണക്കിലെടുത്ത് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ മൂല്യം എന്താണെന്ന് പരിഹരിക്കാനും വിലയിരുത്താനും നിങ്ങൾക്ക് കഴിയും എന്താണ് പ്രയോഗിക്കുന്ന ലോഡ് ജ്യാമിതി എന്താണ് തുടങ്ങിയവ സ്ട്രെസ് ഫംഗ്ഷൻ ഇതുപോലുള്ള രൂപമെടുക്കുന്നു ZI ഈക്വൽ റ്റു 2 P zഡിവൈഡഡ് ബൈ z സ്ക്വയേർഡ് മൈനസ് s സ്ക്വയേർഡ് ഇന്റു എ സ്ക്വയേർഡ് മൈനസ് s സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ z സ്ക്വയേർഡ് മൈനസ് എ സ്ക്വയേർഡ് ഹോൾ പവർ ഹാഫ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇത് ഒരു വ്യായാമമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അടിസ്ഥാന നടപടിക്രമം എന്താണെന്ന് നമ്മൾ ഇതിനകം കണ്ടുകഴിഞ്ഞു നിങ്ങൾ ഉറവിടം ക്രാക്ക് ടിപ്പിലേക്ക് മാറ്റുക തുടർന്ന് SIF ന്റെ നിർവചനം കൊണ്ടുവരിക കെ യുടെ മൂല്യം ലളിതമാക്കുക കണ്ടെത്തുക ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ അത് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളുടെ അവലോകനം നമ്മൾ നോക്കിയിരുന്നു ആ സമവാക്യങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലെന്നും നമ്മൾ പറഞ്ഞു കാരണം ഇലാസ്തികത സിദ്ധാന്തത്തിൽ നിങ്ങൾക്ക് ഒരു യുണീക്നെസ്സ് സിദ്ധാന്തമുണ്ട് ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു യൂണീക് സൊല്യൂഷൻ ലഭിക്കും അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ വില്യംസ് അറ്റ്ലൂരിയും കോബയാഷിയും ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ എന്നിവ തരുന്ന കോഎഫിഷ്യന്റ്സ് തമ്മിലുള്ള ഐഡന്റിറ്റിയും നമ്മൾ പരിശോധിച്ചു പിന്നെ നമ്മൾ വളരെ വിശദമായി കണ്ടു ഫ്രിഞ്ച് പാറ്റേൺ എന്താണെന്ന് സിഗ്മ 1 പ്ലസ് സിഗ്മയുടെ കോൺടൂറുകളായ ഐസോപാച്ചിക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച് പാറ്റേണുകൾ എങ്ങിനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കി വാസ്തവത്തിൽ ഫ്രിഞ്ച് പാറ്റേണുകളുടെ ജ്യാമിതിയിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നു തുടർന്ന് മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് നമ്മൾ നീങ്ങി പ്ലെയ്ൻ സ്ട്രെസ് കേസും പ്ലെയ്ൻ സ്ട്രെയിൻ കേസും നമ്മൾ കണ്ടു വിവിധതരം പ്രശ്നങ്ങൾക്കുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ എങ്ങനെ വിലയിരുത്താമെന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു ഹ്രസ്വ ചർച്ച നടത്തി നമ്മൾ ഇപ്പോൾ ഒരു തുടക്കം കുറിച്ചു ഇനി മുതൽ ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ ശ്രദ്ധയും ചർച്ചയും സിംഗുലാർ ടേമിൽ മാത്രം കേന്ദ്രീകരിക്കും ഇത് വളരെ പ്രധാനമാണ് നമ്മൾ അതിനൊപ്പം പഠിക്കും